അതിനാൽ ഡിസൈൻ സ്റ്റൈൽസ് തുടരാം കൂടാതെ അവസാന പ്രഭാഷണത്തിൽ നമ്മൾ FPGA കൾ നോക്കി അതിനാൽ അവ എങ്ങനെ പ്രവർത്തിക്കുന്നു അത് എന്താണ് കൂടാതെ ഈ VLSI ഡിസൈൻ സ്റ്റൈൽസിന്റെ രണ്ടാം ഭാഗത്തിലെ ഈ പ്രഭാഷണത്തിൽ ഈ ഉപവിഷയം അതിനാൽ നമ്മൾ മറ്റ് ചില ഡിസൈൻ സ്റ്റൈൽസ് നോക്കും ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഗേറ്റ് അറേകൾ നോക്കും ഗേറ്റ് അറേകൾ FPGA കളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ഈ അർത്ഥത്തിൽ അത് FPGA യ്ക്ക് ശേഷം വരുന്നു FPGA നമുക്ക് നൽകിയിട്ടുള്ളത് ഡിസൈൻ സൌകര്യമായിരുന്നു ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കാം പക്ഷേ നമ്മൾ ഓർക്കുന്ന എല്ലാ യുക്തികളും LUT കൾ ഉപയോഗിച്ചാണ് നടപ്പിലാക്കിയത് എന്നതാണ് ഇതിന്റെ പ്രധാന വശം അവയ്ക്കിടയിലുള്ള സ്റ്റാറ്റിക് മെമ്മറിസ് അല്ലാതെ മറ്റൊന്നുമല്ല SRAM കൾ ഉപയോഗിച്ചാണ് LUT കൾ നടപ്പിലാക്കുന്നത് അതിനാൽ സ്വാഭാവികമായും ലോജിക് ഗേറ്റുകൾ ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന ചില യുക്തികൾ പോലെ വേഗത്തിൽ അവർക്ക് കഴിയില്ല അതിനാൽ പ്രവർത്തന വേഗതയുടെ കാര്യത്തിൽ FPGAs മന്ദഗതിയിലാകും ഇപ്പോൾ ഗേറ്റ് അറേകൾ അല്ലെങ്കിൽ ജിഎ എന്ന് വിളിക്കപ്പെടുന്ന ഈ രണ്ടാമത്തെ സാങ്കേതികവിദ്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗേറ്റ് അറേ FPGA യേക്കാൾ കുറച്ച് വഴക്കമുള്ളതായിരിക്കും പക്ഷേ അതിന്റെ വേഗത അൽപ്പം കൂടുതലായിരിക്കും അതിനാൽ ഇവയെല്ലാം ഡിസൈൻ പെർഫോമൻസ് ട്രേഡ്ഓഫുകളാണ് അതിനാൽ ആ അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് പ്രോട്ടോടൈപ്പിംഗിന്റെ വേഗതയുടെ കാര്യത്തിൽ FPGA യ്ക്ക് ശേഷം ഗേറ്റ് അറേ വരുന്നു അത് അൽപ്പം മന്ദഗതിയിലാണ് പ്രധാന വ്യത്യാസം FPGA യ്ക്കായി ഹാർഡ്വെയറിൽ ഒരു ഡിസൈൻ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലാബിൽ ചെയ്യാൻ കഴിയും എന്നതാണ് യൂസർ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങളുടെ പക്കൽ CAD ടൂൾ ലഭ്യമാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്വയം ചെയ്യാൻ കഴിയും പക്ഷേ ഗേറ്റ് അറേകൾ ആ രീതിയിൽ ചെയ്യാൻ കഴിയില്ല അത് പൂർത്തിയാക്കാൻ നിങ്ങളുടെ വിവരങ്ങളോ ഫാബ്രിക്കേഷൻ ഫെസിലിറ്റിയിലേക്ക് ഒരു അഭ്യർത്ഥനയോ അയയ്ക്കണം പക്ഷേ നിങ്ങൾ ചോദ്യം ചോദിച്ചേക്കാം അത് ഫാബ്രിക്കേഷൻ ഫെസിലിറ്റിയിലേക്ക് എനിക്ക് അയയ്ക്കേണ്ടിവന്നാൽ ഈ ഗേറ്റ് അറേ ഉള്ളതിന്റെ പ്രയോജനം എന്താണ് എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പരമ്പരാഗത ASIC ചിപ്പ് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ഫാബ്രിക്കേഷൻ ഫെസിലിറ്റിയിലേക്ക് അയയ്ക്കുകയും ചെയ്യാത്തത് ഇപ്പോൾ ഗേറ്റ് അറേയുടെ അടിസ്ഥാന തത്വം നമുക്ക് കാണാം ഒരു തത്ത്വചിന്തയിൽ നിന്ന് ഒരു ഐസി പൂർണ്ണമായി രൂപകൽപ്പന ചെയ്യുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് സൃഷ്ടിക്കുന്ന രീതിയിൽ മൊത്തം ചെലവ് വളരെ കുറവായിരിക്കും അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഗേറ്റ് അറേയ്ക്ക് രണ്ട് ഘട്ടങ്ങളുള്ള നിർമ്മാണ പ്രക്രിയ ആവശ്യമാണ് ഇത് വളരെ പ്രധാനമാണ് രണ്ട് ഘട്ടങ്ങളിൽ ആദ്യഘട്ടം ഡിസൈൻ ഇൻഡിപെൻഡന്റ് ആണ് രണ്ടാമത്തെ ഘട്ടം കസ്റ്റമൈസേഷൻ പോലെയാണ് ഇത് ഡിസൈനിനെ ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ ഞാൻ ഇതിലേക്ക് വരും അതിനാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പീപ്പിൾ ഓർഗനൈസഷൻസോ കസ്റ്റമേഴ്സോ ആയ അഞ്ച് പേർ ഉണ്ടെന്ന് കരുതുക GA കളോ ഗേറ്റ് അറേകളോ ഉപയോഗിച്ച് അവരുടെ ഡിസൈനുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന അഞ്ച് ഉപഭോക്താക്കൾ ഉണ്ട് അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ നിർമ്മാണ പ്രക്രിയയിൽ രണ്ട് ഘട്ടങ്ങളുണ്ട് ആദ്യത്തേത് ഡിസൈൻ ഇൻഡിപെൻഡന്റ് ആണ് അതിനാൽ ആദ്യ ഘട്ടത്തിന്റെ ചിലവ് ഈ അഞ്ച് ഉപഭോക്താക്കൾക്ക് പങ്കിടാനാകും അതിനാൽ ഓരോ ഉപഭോക്താവിന്റെയും ചെലവ് വളരെ കുറവായിത്തീരുന്നു വാസ്തവത്തിൽ നിർമ്മാണത്തിന്റെ ഈ ആദ്യ ഘട്ടം കൂടുതൽ സങ്കീർണ്ണമായ ഘട്ടമാണ് അല്ലെങ്കിൽ ചെലവിന്റെ അടിസ്ഥാനത്തിൽ പങ്കിടുന്ന കൂടുതൽ ചെലവേറിയ ഘട്ടമാണ് പക്ഷേ ഈ ആദ്യ ഘട്ടം പൂർത്തിയായാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഉപഭോക്താക്കളിൽ നിന്ന് ഈ നിർദ്ദിഷ്ട അഭ്യർത്ഥന എടുക്കുകയും ഉപഭോക്താക്കളുടെ അഭ്യർത്ഥന അനുസരിച്ച് നമ്മുടെ ഐസി അല്ലെങ്കിൽ ചിപ്പ് കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യും അതിനാൽ രണ്ടാമത്തെ ഘട്ടം ഓരോ ഉപഭോക്താവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും അത് ഉപഭോക്താക്കൾക്ക് പ്രത്യേകമായിരിക്കും അതിനാൽ നിങ്ങളുടെ കോസ്ററ് കോംപോണേന്റ് വിഭജിക്കപ്പെടുകയോ കുറയുകയോ ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാനാകും വീണ്ടും സ്ലൈഡിലേക്ക് മടങ്ങുക ആദ്യ ഘട്ടം ജനറിക് മാസ്കുകൾ എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആദ്യ ഘട്ടത്തെ ജനറിക് മാസ്കുകൾ എന്ന് വിളിക്കുന്നു അതിനർത്ഥം ഫാബ്രിക്കേഷൻ നടത്തുന്ന ഒരു കൂട്ടം മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നു അത് ഉപയോഗിച്ച് നിങ്ങൾ ചിലത് സൃഷ്ടിക്കുന്നു എന്നാണ് ചിപ്പിലെ ട്രാൻസിസ്റ്ററുകൾ വളരെയധികം ദശലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ പക്ഷേ ട്രാൻസിസ്റ്ററുകൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടില്ല നിങ്ങൾ അവ പരസ്പരം ബന്ധിപ്പിക്കുന്നില്ല ട്രാൻസിസ്റ്ററുകൾ ഒരു ഒറ്റപ്പെട്ട രീതിയിൽ ഒറ്റപ്പെട്ട രീതിയിൽ നിർമ്മിക്കുക നിങ്ങൾക്ക് ഒരു ഡിസൈൻ നടപ്പിലാക്കേണ്ട രണ്ടാം ഭാഗത്ത് നിങ്ങളുടെ ഡിസൈനുകൾ സൃഷ്ടിക്കുന്നതിനായി നിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്റർകണക്ഷൻസ് പൂർത്തിയാക്കുന്നു ഇതാണ് അടിസ്ഥാന ആശയം അതിനാൽ നിങ്ങൾ കണക്ട് ചെയ്യാത്ത ഒരു വലിയ സംഖ്യ ട്രാൻസിസ്റ്ററുകൾ സൃഷ്ടിക്കുന്ന ആദ്യപടി രണ്ടാമത്തെ ഘട്ടത്തിൽ ട്രാൻസിസ്റ്ററുകളുടെ ഇന്റർ കണക്ഷനിൻ നൽകിയിട്ടുള്ള ഡിസൈനുകളെ ആശ്രയിച്ച് കണക്ഷൻ നിങ്ങൾ പൂർത്തിയാക്കുക അതിനാൽ ഡയഗ്രമാറ്റിക്കലായി ഞാൻ ചുരുക്കത്തിൽ ഇതുപോലെ കാണിക്കുന്നു നിങ്ങൾ ഒരു വലിയ അളവ് ട്രാൻസിസ്റ്ററുകൾ സൃഷ്ടിക്കുന്ന ആദ്യപടിയാണിത് ഇപ്പോൾ ഈ ട്രാൻസിസ്റ്റർ നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇവയെ ചിലപ്പോൾ ഡീപ് പ്രോസസ്സിംഗ് സ്റെപ്സ് എന്ന് വിളിക്കുന്നു കാരണം നിങ്ങൾ ഓക്സൈഡ് ലയർ ഡിഫുഷൻ പോളിസിലിക്കൺ ഓക്സൈഡ് എന്നിങ്ങനെ ആരംഭിക്കുന്ന നിരവധി ലയർ സൃഷ്ടിക്കേണ്ടതുണ്ട് കൂടാതെ ഗേറ്റിനായി നിങ്ങൾക്ക് ഐസൊലേഷൻ ആവശ്യമാണ് അതിനാൽ ഫാബ്രിക്കേഷനിൽ നിരവധി ലയേഴ്സ് ആവശ്യമാണ് ഇത് ഈ ഘട്ടത്തിന്റെ വില വർദ്ധിപ്പിക്കുന്നു അതിനാൽ ഈ ഘട്ടത്തിനായി നിങ്ങൾ സ്റ്റാൻഡേർഡ് മാസ്കുകൾ ഉപയോഗിക്കുന്നു അത് എല്ലാ ഡിസൈനുകൾക്കും തുല്യമായിരിക്കും കൂടാതെ നിങ്ങൾ വേഫറുകൾ സൃഷ്ടിക്കുന്നു അവ സാധാരണമായ ഒരു വലിയ എണ്ണം വേഫറുകളാണ് ഏത് ഉപഭോക്താവിനും അവ ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾ ഉപഭോക്താക്കളിൽ നിന്ന് ഈ റിക്വസ്റ്റ് സ്വീകരിക്കുന്നു നിങ്ങൾ ഇഷ്ടാനുസൃത മാസ്കുകൾ സൃഷ്ടിക്കുകയും നിങ്ങൾ മെറ്റലിസഷൻസ് മാത്രം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇന്റർകണക്ഷൻസ് പൂർത്തിയാക്കുന്നതിനായി നിങ്ങൾ ഇതിനകം സൃഷ്ടിച്ച ട്രാൻസിസ്റ്ററുകളുടെ മുകളിൽ മെറ്റൽ ലയേഴ്സ് മാത്രമാണ് നിർമ്മിക്കുന്നത് അതിനാൽ ഈ രണ്ട് ഘട്ട നിർമ്മാണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ഗേറ്റ് അറേയ്ക്കായി ചിപ്പ് ഉപയോഗം കൂടുതലാണ് കാരണം ജിഎയിൽ നിങ്ങൾക്ക് ട്രാൻസിസ്റ്ററുകൾ ഉണ്ട് കൂടാതെ ട്രാൻസിസ്റ്ററുകൾ നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം പക്ഷേ FPGA ൽ നിങ്ങൾ ഓർക്കുന്നു ഈ CLB കൾക്കുള്ളിൽ നിങ്ങൾക്ക് അനാവശ്യമായ ധാരാളം കാര്യങ്ങൾ ഉണ്ട് ധാരാളം മൾട്ടിപ്ലക്സറുകൾ ഉണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ട് അവ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ആവശ്യമില്ല നിങ്ങൾക്ക് പലപ്പോഴും അവയൊന്നും ആവശ്യമില്ല അവയിൽ പലതും പക്ഷേ ജിഎയിൽ അത് അങ്ങനെയല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഏത് ട്രാൻസിസ്റ്ററും ഉപയോഗിക്കാം കൂടാതെ വ്യക്തമായും ചിപ്പ് വേഗത കൂടുതലാണ് കാരണം നിങ്ങൾ എവിടെയും സ്റ്റാറ്റിക് റാം ഉപയോഗിക്കുന്നില്ല ട്രാൻസിസ്റ്ററുകൾ മാത്രമാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് കൂടാതെ സാധാരണ ഗേറ്റ് അറേ ചിപ്പുകൾ വളരെ വലുതായിരിക്കും ഇപ്പോൾ നമുക്ക് ഡിസൈൻ സ്റ്റൈലിലേക്ക് വരാം ഇത് ഐസികൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് അതിനാൽ ഈ സ്റ്റാൻഡേർഡ് സെൽ ഡിസൈൻ ഏറ്റവും പ്രചാരമുള്ള ഡിസൈൻ സ്റ്റൈൽസിൽ ഒന്നാണ് ഒരർത്ഥത്തിൽ ആധുനിക കാലത്തെ സങ്കീർണത മനസ്സിലാക്കി കൈകാര്യം ചെയ്യാനും നിങ്ങൾ കാണുന്നു ആരും ആദ്യം മുതൽ ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യുന്നില്ല ഡിസൈൻ പുനരുപയോഗത്തിന് ഒരു ആശയം ഉണ്ട് അതിനാൽ ഇപ്പോൾ ആളുകൾ ടെക്നോളജി ലൈബ്രറി എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു അവിടെ എനിക്ക് ഇതിനകം തന്നെ വളരെ കാര്യക്ഷമമായ രീതിയിൽ സൃഷ്ടിച്ച ചില ചെറിയ സ്റ്റാൻഡേർഡ് ഡിസൈനുകൾ ഉണ്ട് ഞാൻ അവർക്കായി വളരെ കോംപാക്ട് ലേ ഔട്ട് ഉണ്ടാക്കി ഞാൻ അവ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് മൂന്ന് ഇൻപുട്ട് NAND ഗേറ്റ് പറയാം അതിനാൽ എന്റെ രൂപകൽപ്പനയിൽ എനിക്ക് മൂന്ന് ഇൻപുട്ട് NAND ആവശ്യമുള്ളപ്പോഴെല്ലാം ഞാൻ അത് ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നു ഞാൻ അത് എന്റെ ലേഔട്ടിൽ വെച്ചു എനിക്ക് NAND ഇൻപുട്ട് ആവശ്യമാണ് ഞാൻ അത് വീണ്ടും ലൈബ്രറിയിൽ നിന്ന് എടുക്കുകയും ഞാൻ അത് എന്റെ ഡിസൈനിൽ ഇടുകയും ചെയ്തു സെമി കസ്റ്റം ഡിസൈൻ സ്റ്റൈൽ എന്ന് വിളിക്കപ്പെടുന്നതിന് പിന്നിലെ ആശയമാണിത് അതിനാൽ സാധാരണ സെൽ അല്ലെങ്കിൽ സെമി കസ്റ്റം ഡിസൈൻ സ്റ്റൈൽ എല്ലാ മാസ്കുകളും സൃഷ്ടിക്കേണ്ട ഒരു ഡിസൈൻ സ്റ്റൈൽ ആണിത് കാരണം ഫാബ്രിക്കേഷന്റെ ചെലവ് നിങ്ങൾ മാത്രം വഹിക്കണം അതിനാൽ അർത്ഥമാക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ ഒരു ഡിസൈനർ ആണ് നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഫാബ്രിക്കേഷന്റെ മുഴുവൻ ചെലവും നിങ്ങൾ വഹിക്കണം അതിനാൽ അടിസ്ഥാന ആശയം ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്ന ലോജിക് സെല്ലുകൾ വികസിപ്പിക്കുകയും സെൽ ലൈബ്രറിയിൽ വിളിക്കപ്പെടുകയും ചെയ്യുന്നു ഒരു സാധാരണ സെൽ ലൈബ്രറിയിൽ നൂറുകണക്കിന് സെല്ലുകൾ അടങ്ങിയിരിക്കാം അവയിൽ ചിലത് കാണിച്ചിരിക്കുന്നു ചില അടിസ്ഥാന ഗേറ്റുകൾ മൾട്ടിപ്ലക്സറുകൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഫുൾ ആഡർ എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള ലളിതമായ ബ്ലോക്കുകൾ സെൽ ലൈബ്രറിയിൽ സംഭരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വളരെ ഒപ്റ്റിമൈസ് ചെയ്ത ലേഔട്ടുകൾ പറയാം ചില നിയന്ത്രണങ്ങളുണ്ട് അതേപ്പറ്റി നമ്മൾ സംസാരിക്കും അതിനാൽ ഇതാണ് അടിസ്ഥാന ആശയം പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ സെല്ലുകളെ സംബന്ധിച്ച് ചില നിയന്ത്രണങ്ങളുണ്ട് ഓരോ സെല്ലിനും ഒരേ ഉയരം ഉണ്ടായിരിക്കണം എല്ലാ സെല്ലുകളും അവയുടെ ഉയരം തുല്യവും നിശ്ചിത ഉയരവും ആയിരിക്കണം ഈ സെല്ലുകൾക്ക് നിശ്ചിത ഉയരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവയെ വശങ്ങളിലായി വയ്ക്കാനും അവയെ ഒരുമിച്ച് ചേർക്കാനും കഴിയും ഇതാണ് നേട്ടം സെല്ലുകൾക്ക് നിങ്ങളുടെ VDD യും ഗ്രൌണ്ട് ലൈനുകളും ഒരേ ഉയരത്തിൽ പ്രവർത്തിക്കുന്നു ഒരേ ഹൊറിസോണ്ടൽ കോൺഫിഗറേഷനിൽ നിങ്ങൾക്ക് പറയാം അതിനാൽ നിങ്ങൾ അവയെ വശങ്ങളിലായി വെച്ചാൽ വിഡിഡിയും ഗ്രൌണ്ട് ലൈനുകളും ചേരും ഇത് ഒരു നേട്ടമോ ഒരു സവിശേഷതയോ ആണ് അതിനാൽ ഇത് സെല്ലുകൾ റോകളിലൂടെയും ഇന്റർകണക്ഷനിലൂടെയും യാന്ത്രികമായി സ്ഥാപിക്കാൻ അനുവദിക്കുന്നു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ അനേകം സെൽസ് അടുത്തടുത്തായി റോ ആയി രൂപപ്പെടുത്താൻ കഴിയും പവറും ഗ്രൌണ്ട് റെയിലുകളും സാധാരണയായി സെല്ലിന്റെ മുകളിലും താഴെയുമുള്ള അതിരുകൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്നു നെയ്ഗ്ബറിങ് സെൽസ് പൊതുവായ പവറും ഗ്രൌണ്ട് ബസും പങ്കിടുന്നു കൂടാതെ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ സെല്ലിന്റെ മുകളിലും താഴെയുമായി സ്ഥിതിചെയ്യുന്നു അതിനാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളെ ഒരിക്കൽ കാണിക്കട്ടെ എന്നാണ് ഇതൊരു സ്റ്റാൻഡേർഡ് സെൽ ആണെന്ന് കരുതുക ഞാൻ ലേഔട്ട് ഒരു ബോക്സായി കാണിക്കുന്നു ഇത് രണ്ട് ഇൻപുട്ട് NAND നോട് യോജിക്കുന്നുവെന്ന് നമുക്ക് പറയാം അതിനാൽ A B എന്നീ രണ്ട് ഇൻപുട്ടുകളെ പ്രതിനിധീകരിക്കുന്ന ചില വെർട്ടിക്കൽ ലൈൻസ് ഉണ്ടാകും ഔട്ട്പുട്ടിനെ പ്രതിനിധാനം ചെയ്യുന്ന മറ്റൊരു വെർട്ടിക്കൽ ലൈൻ നമുക്ക് എഫ് എന്ന് പറയാം അത് മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ പവർ സപ്ലൈ VDD യ്ക്ക് ഒരു നിശ്ചിത ട്രാക്കും ഗ്രൌണ്ടിന് മറ്റൊരു നിശ്ചിത ട്രാക്കും ഉണ്ടാകും അതിനാൽ നിങ്ങൾ മറ്റേതെങ്കിലും സ്റ്റാൻഡേർഡ് സെൽ നോക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനം ആകാം അതിനാൽ ഇതും വളരെ സാമ്യമുള്ളതായി കാണപ്പെടും കൂടാതെ വിഡിഡിയും ഗ്രൌണ്ട് ലൈനുകളും ഒരേ ഹൊറിസോണ്ടൽ പൊസിഷനിൽ സമാനമായി പ്രവർത്തിക്കും അതിനാൽ നിങ്ങൾ അവയെ വശങ്ങളിലായി അടുപ്പിക്കുകയാണെങ്കിൽ ഈ വിഡിഡിയും ഗ്രൌണ്ട് ലൈനുകളും പരസ്പരം സ്പർശിക്കും ഇതാണ് പ്രധാന നേട്ടം അതിനാൽ നിങ്ങൾക്ക് യഥാക്രമം ഈ സ്റ്റാൻഡേർഡ് സെല്ലുകളെല്ലാം അരികിൽ വയ്ക്കാം നിങ്ങൾക്ക് റോ യിൽ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ വിഡിഡിയും ഗ്രൌണ്ട് ലൈനുകളും പരസ്പരം ഓട്ടോമാറ്റിക് ആയി ടച്ച് ചെയ്യും അതിനാൽ അവർക്ക് അവിടെ നിന്ന് വൈദ്യുതി കണക്ഷനുകൾ ലഭിക്കും അതിനാൽ ഇവിടെ ചില ഉദാഹരണം കാണിച്ചിരിക്കുന്നു NAND എന്ന രണ്ട് ഇൻപുട്ടിന്റെ ലേഔട്ട് ഡയഗ്രമാണ് ഇത് അതിനുശേഷം NOT ഇൻവെർട്ടർ ഇത് രണ്ട് ഇൻപുട്ട് NAND ന്റെ CMOS ഡിസൈൻ ആണ് ഈ ചുവന്ന വരകൾ പോളിസിലിക്കൺ ലൈനുകളാണ് അവ ഇൻപുട്ടുകൾ a b എന്നിവ നൽകുന്നു കൂടാതെ ഇവിടെ ഈ ചുവന്ന രേഖ ഈ NOT ഗേറ്റിന്റെ ഇൻപുട്ട് ആണ് ഇത് ഈ ആദ്യത്തെ NAND ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തതാണ് കൂടാതെ ഇതിന്റെ ഔട്ട്പുട്ട് ഈ വെർട്ടിക്കൽ ലൈൻ f ൽ ലഭ്യമാണ് അതിനാൽ NAND ഗേറ്റും ഇൻവെർട്ടറും ഒന്നിനുപുറകെ ഒന്നായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു സെല്ലിന്റെ ഉദാഹരണമാണിത് അതിനാൽ ഒരു സെറ്റ് എന്ന നിലയിൽ ഈ സ്റ്റാൻഡേർഡ് സെല്ലുകൾക്ക് നിശ്ചിത ഉയരമുണ്ടാകാം പക്ഷേ അവയുടെ സങ്കീർണ്ണതയെ ആശ്രയിച്ച് വ്യത്യസ്ത വീതികൾ ഉണ്ടാകാം കൂടാതെ അവർ വിഡിഡിയും ഗ്രൌണ്ടും ബന്ധിപ്പിച്ചിരിക്കുന്നു അവർ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങൾ സാധാരണ സെൽ ഡിസൈനുകൾക്കായുള്ള ഫ്ലോർ പ്ലാനിംഗിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനാൽ IO ഫ്രെയിമിനുള്ളിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പക്കൽ മൊത്തം ചിപ്പ് ഏരിയയുണ്ട് എന്നതാണ് അതിനാൽ ഈ സ്റ്റാൻഡേർഡ് സെൽ അടുത്തടുത്ത് ബന്ധിപ്പിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് അവയെ നിരവധി റോകളിൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയും സ്റ്റാൻഡേർഡ് സെല്ലുകൾ സ്ഥാപിക്കാൻ കഴിയുന്ന റോകൾ ഉണ്ടാകും അതിനിടയിൽ കുറച്ച് ഇടം ഉണ്ടാകും അത് കൂടുതൽ ഇന്റർകണക്ഷൻസിന് ഉപയോഗിക്കാം ഇവിടെ എനിക്ക് എങ്ങനെ ഒരു ഡയഗ്രം ഉണ്ടെന്ന് നോക്കാം ഈ ഡയഗ്രം സ്റ്റാൻഡേർഡ് സെൽ സെല്ലുകളുടെ ഒരു റോ കാണിക്കുന്നു ഇത് രണ്ടാമത്തെ റോ ഇത് മൂന്നാമത്തെ റോ കൂടാതെ ചില ഇന്റർകണക്ഷൻസ് ഇതുപോലെ കാണിച്ചിരിക്കുന്നു നിങ്ങൾ ഇന്റർകണക്ഷൻസ് നടത്തുമ്പോൾ കാണുക കാരണം ഇവ രണ്ട് വ്യത്യസ്ത നിറങ്ങളായി കാണിച്ചിരിക്കുന്നു അർത്ഥം ഹൊറിസോണ്ടലും വെർട്ടിക്കലും ലൈൻസ് രണ്ട് വ്യത്യസ്ത ലയേഴ്സിൽ ആണെന്നാണ് അതിനാൽ നിങ്ങൾക്ക് അവയെ ബന്ധിപ്പിക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ നിങ്ങൾ ഒരു ലയേറിൽ ഒരു ഭാഗവും മറ്റൊരു ലയേറിൽ ഒരു ഭാഗവും പ്രവർത്തിപ്പിക്കുക അങ്ങനെ അടുത്തടുത്ത് പോകുന്ന കണക്ഷൻ വിഭജിക്കുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു കൂടാതെ ഇവിടെ നിന്ന് ഇവിടേക്ക് മറ്റൊരു ബന്ധമുണ്ട് പക്ഷേ ഇവിടെ പരസ്പരബന്ധമില്ല ക്രോസ് കണക്ഷനില്ല കാരണം അവ രണ്ട് വ്യത്യസ്ത ലയേറിൽ ആണ് പ്രവർത്തിക്കുന്നത് നീലയും പർപ്പിളും കൂടാതെ മറ്റൊരു കാര്യം ഇതുപോലുള്ള ഈ സ്റ്റാൻഡേർഡ് സെല്ലുകളും അതിനിടയിലുള്ള ഈ സ്ഥലവും നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു നിങ്ങൾ അതിനെ ഇന്റർകണക്ഷൻ റൂട്ടിംഗിനായി വിടുന്നു അതിനാൽ ഇവിടെ ഒരു കാര്യം ശരിയാണ് നിങ്ങൾ ഇത് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു പോയിന്റ് കണക്റ്റുചെയ്യാൻ ഇവിടെ നിന്ന് ഒരു പോയിന്റ് ബന്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇവിടെ കണക്റ്റുചെയ്യണമെന്ന് കരുതുക അതിനാൽ നിങ്ങൾ കാണുന്നതിനാൽ നിങ്ങൾ എങ്ങനെ ബന്ധിപ്പിക്കും ഞാൻ അത് ഇവിടെ കാണിക്കട്ടെ അതിനാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സെൽസിന്റെ ഒരു റോ ഉണ്ട് നിങ്ങൾക്ക് സെൽസിന്റെ ഒരു റോ ഇവിടെയുണ്ട് നിങ്ങൾക്ക് സെൽസിന്റെ ഒരു റോ ഇവിടെയുണ്ട് അതിനാൽ ഈ സെല്ലുകൾ നിങ്ങൾ ഓരോന്നായി ഇവിടെ സ്ഥാപിക്കുന്നു ഇവിടെയും നിങ്ങൾ സെൽസ് സ്ഥാപിക്കുന്നു ഇവിടെയും നിങ്ങൾ സെൽസ് സ്ഥാപിക്കുന്നു ഇപ്പോൾ എനിക്ക് a കണക്റ്റുചെയ്യേണ്ടതുണ്ടെന്ന് കരുതുക ഇവിടെ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിക്കുക അതിനാൽ ഞാൻ എങ്ങനെ ബന്ധിപ്പിക്കും ഇവിടെ നിന്ന് ഇവിടേക്ക് പോകാൻ എനിക്ക് ഒരു വഴിയുമില്ല എനിക്ക് ഇവിടെ നിന്ന് ഇവിടേക്കോ ഇവിടേക്ക് ഇങ്ങോട്ടോ പോകാനുള്ള ഒരു പാതയുണ്ട് അതിനാൽ ഈ കേസിൽ ഞാൻ ചെയ്യുന്നത് ഞാൻ ചില പ്രത്യേക സ്റ്റാൻഡേർഡ് സെല്ലുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് അവയെ ഫീഡ് എന്ന് വിളിക്കുന്നു ഫീഡ് ത്രൂ സെൽസ് എന്നാൽ ഒന്നുമല്ല അവ ഒരു വെർട്ടിക്കൽ കണക്ഷനെ പിന്തുണയ്ക്കുന്നുലോജിക് ഇല്ല അതിനാൽ ഈ കണക്ഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ചിലത് രണ്ട് വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിച്ച് കാണിക്കുന്നു നിങ്ങൾ ഇതുപോലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു ഇവിടെ നിന്ന് നിങ്ങൾ ഇതുപോലുള്ള മറ്റൊരു കണക്ഷൻ ഉണ്ടാക്കുന്നു ഇവയെ ഫീഡ് ത്രൂ സെൽസ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇവിടെ ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ ഫീഡ് ഉൾപ്പെടുത്താം നിങ്ങളുടെ ഡിസൈനിലെ സെല്ലുകളിലൂടെ നിങ്ങളുടെ സെല്ലുകളിലൂടെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചില വയറുകൾ മുകളിൽ നിന്ന് താഴേക്ക് അല്ലെങ്കിൽ താഴേക്ക് മുകളിലേക്ക് എടുക്കാൻ കഴിയും അതിനാൽ നമുക്ക് കൂടുതൽ സങ്കീർണ്ണമായ ഒരു ഡിസൈൻ നോക്കാം ഒരു സാധാരണ സെൽ ലേഔട്ട് സാധാരണയായി എങ്ങനെ കാണപ്പെടും അതിനാൽ ഇവിടെ സെല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും സെല്ലുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്നും സെല്ലുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്നും കാണാം ഇതിനിടയിലുള്ള ഈ സ്ഥലത്തെ ചാനൽ എന്നും വിളിക്കുന്നു ഈ ചാനൽ ഇന്റർകണക്ഷൻസിന് ഉപയോഗിക്കുന്നു നിങ്ങൾ ചുവപ്പും പിങ്കും വയറുകൾ കാണുന്നു അവ രണ്ട് വ്യത്യസ്ത പാളികളിൽ കാണിച്ചിരിക്കുന്നു അവ ഇന്റർകണക്ഷൻസിന് ഉപയോഗിക്കുന്നു അതിനാൽ ഒരു സാധാരണ സെൽ ലേഔട്ട് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഡിസൈൻ ശൈലികൾ ചർച്ച ചെയ്യുന്നതിന്റെ കാരണം നിങ്ങൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ തുടർന്നുള്ള ചർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നത് കാണാം വിഎൽഎസ്ഐ സർക്യൂട്ടുകൾക്കുള്ള ഫിസിക്കൽ ഡിസൈനുമായി ബന്ധപ്പെട്ട ആദ്യ കാര്യം നിങ്ങൾ കാണുന്നത് ഫ്ലോർ പ്ലാനിംഗും പ്ലേസ്മെന്റും എന്ന പ്രക്രിയയാണ് പ്ലേസ്മെന്റ് എന്നാൽ ഒരു ബ്ലോക്ക് നൽകി ചിപ്പിൽ ഞാൻ ബ്ലോക്ക് സ്ഥാപിക്കേണ്ടതാണ് നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് സെൽ ഡിസൈൻ സ്റ്റൈൽ പിന്തുടരുകയാണെങ്കിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് വളരെ പരിമിതമാണ് നിങ്ങൾക്ക് ഇതിനകം റോകൾ നിർവ്വചിച്ചിട്ടുണ്ട് റോകളിലൊന്നിൽ നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് സ്ഥാപിക്കാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് അത്തരം നിയന്ത്രണങ്ങളൊന്നുമില്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങളില്ലാത്ത ഏത് കോർഡിനേറ്റിലും നിങ്ങൾക്ക് ചിപ്പിൽ എവിടെയും ബ്ലോക്ക് സ്ഥാപിക്കാനാകും കൂടാതെ വ്യക്തമായും ഇത് കൂടുതൽ സങ്കീർണമാകും അതിനാൽ ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ധാരാളം സമയം ചെലവഴിക്കേണ്ടതുണ്ടോ അതോ നിങ്ങൾക്ക് അത്രത്തോളം ആവശ്യമില്ലെന്നോ ഇത് ഡിസൈൻ ശൈലിയെ ആശ്രയിച്ചിരിക്കുന്നു സ്റ്റാൻഡേർഡ് സെല്ലിൽ ഫ്ലോർ പ്ലാനിംഗ് ആവശ്യമില്ല പ്ലേസ്മെന്റ് മാത്രം എന്തെങ്കിലും സ്ഥാപിക്കുക ഫ്ലോർ പ്ലാനിംഗ് എന്നാൽ ഞാൻ സിലിക്കൺ ഫ്ലോറിൽ എവിടെ വയ്ക്കും എന്നാണ് അതാണ് ഫ്ലോർ പ്ലാനിംഗ് അതിനാൽ ഒരു സാധാരണ സെൽ ലേഔട്ട് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് അതിനാൽ ഇപ്പോൾ നമുക്ക് എക്സ്ട്രീം ഫുൾ കസ്റ്റം ഡിസൈനിലേക്ക് വരാം അതിനാൽ ആദ്യം മുതൽ എല്ലാം ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നു പക്ഷേ ഇന്ന് പ്രായോഗികമായി ഞാൻ പറഞ്ഞതുപോലെ വളരെ ഉയർന്ന വിലയും സമയവും കാരണം നമ്മൾ അത് ചെയ്യുന്നു പക്ഷേ എന്തായാലും ഫുൾ കസ്റ്റം എന്നത് അൺ റെസ്ട്രിക്ടഡ് എന്ന് അർത്ഥമാക്കാം എനിക്ക് ചിപ്പിൽ എവിടെയും എന്തും സ്ഥാപിക്കാം പക്ഷേ ഞാൻ ആദ്യം മുതൽ എല്ലാം വികസിപ്പിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല ഉദാഹരണത്തിന് എനിക്ക് മൾട്ടിപ്ലയർ വേണം എനിക്ക് എന്റെ ഒരു ഡിസൈന്റെ ഭാഗമായി മൾട്ടിപ്ലയർ ആവശ്യമുണ്ടെന്ന് നമുക്ക് പറയാം പക്ഷേ നിങ്ങൾ ഇതിനകം ഒരു മൾട്ടിപ്ലയർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് എനിക്ക് അത് നിങ്ങളിൽ നിന്ന് എടുക്കാം നിങ്ങളിൽ നിന്ന് ഡിസൈൻ എടുക്കാം എനിക്ക് അതേ ഡിസൈൻ എന്റെ ഡിസൈനിൽ ഇടാം എനിക്ക് ഈ രീതിയിൽ ഡിസൈനുകൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയും അതിനാൽ ആളുകൾ സാധാരണയായി അവരുടെ വി ഐ ചിപ്പുകൾ ഇന്ന് ഈ രീതിയിൽ സൃഷ്ടിക്കുന്നു അതിനാൽ സ്റ്റാൻഡേർഡ് സെൽ അടിസ്ഥാനമാക്കിയുള്ള ഡിസൈൻ ഞാൻ പറഞ്ഞതുപോലെ സെൽ മുൻകൂട്ടി രൂപകൽപ്പന ചെയ്തതിനാൽ അവയെ സെമി കസ്റ്റം ഡിസൈൻ എന്ന് വിളിക്കുന്നു ഗേറ്റുകൾ മൾട്ടിപ്ലക്സറുകൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ അവ ഒരേ ഉയരത്തിലാണ് അവയെല്ലാം മുൻകൂട്ടി രൂപകൽപ്പന ചെയ്തവയാണ് പക്ഷേ ഫുൾ കസ്റ്റം ഡിസൈനിൽ നമുക്ക് ലൈബ്രറി ഒന്നുമില്ലെന്ന് നമ്മൾ പറയുന്നു അതിനാൽ എല്ലാ ബ്ലോക്കുകളും നമ്മൾ സ്വയം രൂപകൽപ്പന ചെയ്യേണ്ടതായി വന്നേക്കാം നമുക്ക് ആവശ്യമുള്ള ഏത് സ്ഥലത്തും അവ സ്ഥാപിക്കേണ്ടതായി വന്നേക്കാം ഞങ്ങൾക്ക് മുഴുവൻ വഴക്കവുമുണ്ട് പക്ഷേ വ്യക്തമായും വികസന ചിലവ് വളരെ ഉയർന്നതായിരിക്കും ആധുനിക വിഎൽഎസ്ഐ ചിപ്പുകളിൽ ഒരു ബില്യണിലധികം ട്രാൻസിസ്റ്ററുകൾ അടങ്ങിയിരിക്കാമെന്ന വസ്തുത നിങ്ങൾ ചിന്തിക്കുന്നു ഇത് നിർമ്മിക്കുകയോ പൂർണ്ണമായി ഇഷ്ടാനുസൃതമാക്കുകയോ ചെയ്യുന്നത് മിക്കവാറും അസാധ്യമാണ് കാരണം ഇത് സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് വർഷങ്ങളെടുക്കും നിങ്ങളുടെ ഡിസൈൻ പൂർത്തിയാക്കാൻ ഡിസൈൻ നിങ്ങളുടെ ലേ ഔട്ട് പൂർത്തിയാക്കുക അതിനാൽ ഇത് നിങ്ങൾക്ക് വളരെ സങ്കീർണ്ണമാകും അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഊന്നിപ്പറയുന്നു ഡിസൈൻ റീയൂസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ് അതിനാൽ മുമ്പത്തെ ചില ഡിസൈനർമാർ ചെയ്ത ഒരു ഡിസൈൻ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ സമയം ലാഭിക്കാൻ നിങ്ങൾ എല്ലായ്പ്പോഴും അത് വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിക്കും പക്ഷേ അവിടെ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യം മുതൽ രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഫുൾ കസ്റ്റം ഡിസൈൻ വളരെ ധാർമ്മികമായും കർശനമായും ഉപയോഗിക്കുന്ന ഒരു ക്ലാസിക്കൽ ഉദാഹരണം ഒരു മെമ്മറി സെല്ലിന്റെ ഡിസൈനിലാണ് കാരണം ഒരു ചിപ്പിനുള്ളിൽ പരമാവധി അളവിലുള്ള സെല്ലുകളോ ബിറ്റുകളോ പായ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു തരം ചിപ്പാണ് മെമ്മറി അതിനാൽ വളരെ ഒതുക്കമുള്ളതും മികച്ചതുമായ ലേഔട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്നു കൂടാതെ മെമ്മറിയുടെ ഒരു ഗുണമാണ് അത് ഒരു അറയായി സൃഷ്ടിക്കപ്പെട്ടതിനാൽ ഒരു സെല്ലിന്റെ ലേഔട്ട് സൃഷ്ടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ധാരാളം തവണ ആവർത്തിക്കാനാകും അതിനാൽ നിങ്ങൾ ആദ്യം മുതൽ ചിപ്പിന്റെ മൊത്തത്തിലുള്ള ലേഔട്ട് സൃഷ്ടിക്കുന്നു എന്നല്ല നിങ്ങൾ ഒരു സെല്ലിന്റെ ലേഔട്ട് രൂപകൽപ്പന ചെയ്യുന്നു നിങ്ങൾ അത് പലതവണ ദശലക്ഷക്കണക്കിന് തവണ ബില്യൺ തവണ പോലെ ആവർത്തിക്കുന്നു അതിനാൽ ഒരു മെമ്മറി സെല്ലിനായി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇതിലേക്ക് പോകാം പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ലോജിക് ചിപ്പ് ഡിസൈനിനായി നിങ്ങൾക്ക് വിവിധ ഡിസൈനുകളുടെ സ്റ്റൈൽസ് കമ്പൈൻ ചെയ്തും ഡിസൈൻ റീയൂസ് ചെയ്തും ഉപയോഗിക്കാം ലോജിക് സെൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ചില ഭാഗം നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് സെൽ ഉപയോഗിക്കാം ചില ഭാഗം നിങ്ങൾക്ക് ഡിസൈൻ റീയൂസ് ചെയ്ത് ഒരു ബ്ലോക്ക് ഉൾപ്പെടുത്താം അതിനാൽ ഇത് ഒരു സാധാരണ രൂപമാണ് ഇത് ഫുൾ കസ്റ്റം ഡിസൈനെക്കുറിച്ചുള്ള ഈ ആശയം നന്നായി പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളോട് പറയും കാരണം യഥാർത്ഥ ഫുൾ കസ്റ്റം ഡിസൈനിൽ എവിടെ എല്ലാം ഫ്ലെക്സിബിൾ ആണ് ജോമെട്രി ഷേപ്പ്സ് ഓറിയന്റേഷൻ റൊട്ടേഷൻ ആംഗിൾ പ്ലെയ്സ്മെന്റ് ഓരോ സ്ഥലവും ഓരോ സർക്യൂട്ട് ബ്ലോക്കിന്റെയും ട്രാൻസിസ്റ്റർ വ്യക്തിഗതമായി ചെയ്യാവുന്നതാണ് ഡിസൈൻ പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരിക്കും അതിനാൽ ഒരു ഡിസൈനറിന് പ്രതിദിനം 10 മുതൽ 20 വരെ ട്രാൻസിസ്റ്ററുകൾ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ശരാശരി കണക്കാണിത് അതിനാൽ വലിയ ഡിസൈനുകൾക്ക് ഇത്തരത്തിലുള്ള ഫുൾ കസ്റ്റം ഡിസൈനിലേക്ക് പോകുന്നത് പ്രായോഗികമായി സാധിക്കില്ല അതിനാൽ അത് ദശലക്ഷക്കണക്കിന് വിൽക്കുന്നതൊഴിച്ച്നമ്മൾ ചില ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നു ഉദാഹരണത്തിന് പെന്റിയം മൾട്ടികോർ ചിപ്സ് സിപിയു ചിപ്പുകൾ ഇന്റൽ നിർമ്മിക്കുന്ന പ്രോസസർ ചിപ്പുകൾ അവിടെ അവർക്ക് കൂടുതൽ മികച്ചതും വേഗതയേറിയതും ഒപ്റ്റിമൈസ് ചെയ്യുന്നതുമായ ഒരു ചിപ്പ് സൃഷ്ടിക്കുന്നതിന് കൂടുതൽ സമയവും പരിശ്രമവും ചെലവഴിക്കാൻ കഴിയും പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മറ്റ് സന്ദർഭങ്ങളിൽ രണ്ടുപേർ 1000 അല്ലെങ്കിൽ 10000 ചിപ്പുകൾ വിപണിയിൽ വിൽക്കുന്നു ആ എക്സർസൈസ് ചെയ്യുന്നതോ കടന്നുപോകുന്നതോ ആയ വേദനയോ പരിശ്രമമോ വിലമതിക്കുന്നില്ല അതിനാൽ ഡിജിറ്റൽ വിഎൽഎസ്ഐ ഡിസൈനിൽ ഞാൻ പറഞ്ഞതുപോലെ ഫുൾ കസ്റ്റം ഡിസൈൻ വളരെ അപൂർവ്വമായി ഉപയോഗിക്കപ്പെടുന്നു ഞാൻ പരാമർശിച്ചതുപോലെ ഉയർന്ന പ്രകടനമുള്ള മൈക്രോപ്രൊസസ്സറുകൾ പോലുള്ള ഉയർന്ന അളവിലുള്ള ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പനയാണ് അവ ധാരാളം വിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മെമ്മറി ചിപ്പുകളും തീർച്ചയായും FPGA ചിപ്പുകളും വളരെ വലിയ അളവിൽ വിറ്റു ഇവിടെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഫുൾ കസ്റ്റം ഡിസൈൻ അല്ലെങ്കിൽ ഫുൾ കസ്റ്റം സെമി കസ്റ്റം എന്നിവയുടെ വിവേകപൂർണ്ണമായ കോമ്പിനേഷൻ ഉപയോഗിക്കാൻ കഴിയുന്നത് അതിനാൽ ഒരു സാധാരണ ഫുൾ കസ്റ്റം ലേഔട്ട് ഇതുപോലെയാകാം അതിനാൽ നിങ്ങൾക്ക് വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യസ്ത ബ്ലോക്കുകൾ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു ചിലത് ദീർഘചതുരം ചിലത് നീളമുള്ളതും ചിലത് നേർത്തതുമാണ് അതിനാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡ് സെൽ തരത്തിലുള്ള ഡിസൈൻ തത്വം പിന്തുടരാനാകില്ല നിങ്ങൾ ഈ ബ്ലോക്ക് സിലിക്കൺ ഫ്ലോറിൽ വ്യക്തിഗതമായി സ്ഥാപിക്കേണ്ടതുണ്ട് അതിനാൽ സ്ഥാപിച്ചതിനുശേഷം അവ അനുയോജ്യമായ രീതിയിൽ പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ മുഴുവൻ തത്വവും ഇവിടെ ഡിസൈനിന്റെ മുഴുവൻ തത്വശാസ്ത്രവും വ്യത്യസ്തമാണ് നമ്മൾ അത് മറ്റൊരു രീതിയിലാണ് ചെയ്യേണ്ടത് അതിനാൽ ഡിസൈൻ ശൈലികൾക്കിടയിൽ ഒരു ദ്രുത താരതമ്യം നടത്താൻ ഞങ്ങൾ ഈ പാരാമീറ്ററുകൾക്കെതിരെ FPGA ഗേറ്റ് അറേ സ്റ്റാൻഡേർഡ് സെൽ ഫുൾ കസ്റ്റം എന്നിവ താരതമ്യം ചെയ്യുന്നു സെൽ സൈസ് ഒരു FPGA യ്ക്ക് ഞങ്ങൾക്ക് CLB കൾ ഉണ്ട് അവ ഉറപ്പിച്ചിരിക്കുന്നു ഒരു ഗേറ്റ്അറേയ്ക്ക് അവ ട്രാൻസിസ്റ്ററുകൾ അല്ലെങ്കിൽ ഉറപ്പിച്ചിരിക്കുന്ന ഗേറ്റുകൾ ആണ് സ്റ്റാൻഡേർഡ് സെൽ സെൽ വലുപ്പം വ്യത്യാസപ്പെടാം പക്ഷേ അവയുടെ ഉയരം നിശ്ചിതമാണ് പക്ഷേ ഫുൾ കസ്റ്റത്തിൽ ഇത് പൂർണ്ണമായും വേരിയബിളാണ് പൂർണ്ണമായും ഫ്ലെക്സിബിൾ ആണ് സെൽ ടൈപ്പ് FPGA യ്ക്കായി നിങ്ങൾക്ക് ഈ CLB കൾ ഉണ്ട് അത് പ്രോഗ്രാം ചെയ്യാൻ കഴിയും ഗേറ്റ് അറേയ്ക്ക് ഇത് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഗേറ്റ് ആണ് നിശ്ചയിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് സെല്ലിന് നിങ്ങൾക്ക് ലൈബ്രറിയിൽ നിന്ന് ഏത് സെല്ലിലും ഇടാം ഫുൾ കസ്റ്റത്തിൽ നിങ്ങൾക്ക് വേരിയബിൾ എന്തും ഇടാം സെൽ പ്ലെയ്സ്മെന്റ് FPGA ഗേറ്റ് അറേ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനാവില്ല അവ ഇതിനകം മുൻകൂട്ടി തയ്യാറാക്കിയതാണ് അവ ഫിക്സഡ് ആണ് സ്റ്റാൻഡേർഡ് സെല്ലിൽ നിങ്ങൾക്ക് സെല്ലുകൾ റോകളായി മാത്രമേ സ്ഥാപിക്കാനാകൂ എന്നാൽ പൂർണ്ണമായി നിങ്ങൾക്ക് എവിടെയും അവ സ്ഥാപിക്കാനാകും ഇന്റർകണ്ക്ടസ് FPGA കൾ അവ പ്രോഗ്രാം ചെയ്യാവുന്ന സ്വിച്ച് മാട്രിക്സ് ആണ് ഗേറ്റ് അറേ നിങ്ങൾ ഇന്റർ കണക്ഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇത് വേരിയബിളാണ് സ്റ്റാൻഡേർഡ് സെൽ ഫുൾ കസ്റ്റം അവയും വേരിയബിൾ ആണ് കൂടാതെ വ്യക്തമായും ഡിസൈൻ സമയം അനുസരിച്ച് FPGA ആണ് ഏറ്റവും വേഗതയേറിയത് മിനിറ്റുകൾ മുതൽ ഒരു മണിക്കൂർ വരെ എടുത്തേക്കാം ലാബിൽ ആയിരിക്കാം ഗേറ്റ് അറേ താരതമ്യേന വേഗതയുള്ളതാണ് സ്റ്റാൻഡേർഡ് സെൽ മീഡിയം ആണ് ഫുൾ കസ്റ്റം സ്ലോ ആണ് മീഡിയം എന്നാൽ നിങ്ങൾക്ക് 6 മാസം മുതൽ 12 മാസം വരെ കാലയളവ് ആവശ്യമാണ് അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് മീഡിയം പക്ഷേ ഫുൾ കസ്റ്റം കമ്പ്ലീറ്റ് ഡിസൈനിനു കൂടുതൽ സമയം ആവശ്യമാണ് അതിനാൽ ഇതോടെ ഞങ്ങൾ നാലാമത്തെ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു ഇപ്പോൾ അടുത്ത രണ്ട് പ്രഭാഷണങ്ങളിൽ വിഎൽഎസ്ഐ ഫിസിക്കൽ ഡിസൈൻ സൈക്കിളിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് ഹ്രസ്വ അവലോകനം നോക്കും ഈ കോഴ്സിലെ അടുത്ത മൊഡ്യൂളുകളിൽ ഇത് ഉൾക്കൊള്ളുന്നു